നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ തത്ത്വങ്ങൾ ഉപയോഗിച്ച് ഒരൊറ്റ MOS ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് ഗെയിൻ ഒന്നായ വോൾട്ടേജ് നിയന്ത്രിത വോൾട്ടേജ് സോഴ്സിന്റെ ടോപ്പോളജി നമ്മൾ നോക്കി ഇനി നമുക്ക് ഇത് കൂടുതൽ വിശകലനം ചെയ്യാം ഇത് ഒരു MOS ട്രാൻസിസ്റ്ററിന്റെ സ്മാൾ സിഗ്നൽ ചിത്രമാണ് സർക്യൂട്ടിന്റെ പ്രാഥമിക വിശകലനം നടത്തുമ്പോൾ ഇത് സാധാരണമാണ് ഔട്ട്പുട്ട് കണ്ടക്ടൻസ് ഞാൻ അവഗണിച്ചു ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻപുട്ട് വോൾട്ടേജ് ഗേറ്റ് ടെർമിനലിലേക്ക് പ്രയോഗിക്കണം ഔട്ട്പുട്ട് സോഴ്സ് ടെർമിനലിൽ നിന്ന് എടുക്കുകയും ഡ്രെയിൻ ടെർമിനൽ ഗ്രൌണ്ട് ചെയ്യുകയും വേണം ഗേറ്റ് ടെർമിനലിലേക്ക് ഇൻപുട്ട് പ്രയോഗിച്ചുവെന്ന് ഞാൻ പറയുമ്പോൾ വ്യക്തമായും ഗേറ്റിനും ഡ്രെയിൻ ബന്ധിപ്പിച്ചിരിക്കുന്ന ചില കോമൺ ഗ്രൌണ്ടിന് ഇടയിലാണ് ഇത് അർത്ഥമാക്കുന്നത് അതുപോലെ ഔട്ട്പുട്ട് സോഴ്സ് ടെർമിനലിൽ നിന്ന് എടുത്തതാണെന്ന് ഞാൻ പറയുമ്പോൾ അതിനർത്ഥം സോഴ്സ് ടെർമിനലിനും ഗ്രൌണ്ടിനും ഇടയിലാണ് അതിനാൽ ഞാൻ അവ നന്നായി നോക്കട്ടെ എനിക്ക് ഒരു സോഴ്സ് vi ഉണ്ട് ഇതിന് സാധാരണയായി പൂജ്യമല്ലാത്ത റെസിസ്റ്റൻസ് Rs ഉണ്ട് അത് ഗേറ്റും ഗ്രൌണ്ടും ഇടയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു ഔട്ട്പുട്ട് അത് സോഴ്സിനും ഗ്രൌണ്ടിനും ഇടയിലാണ് എടുത്തത് അതിനർത്ഥം ഞാൻ ഇവിടെ ലോഡ് റെസിസ്റ്റൻസ് കണക്റ്റുചെയ്യുന്നു എന്നതാണ് ഈ രണ്ടു സോഴ്സും അതായതു വോൾടേജ് സോഴ്സുമായി സീരീസിൽ ഉള്ള റെസിസ്റ്റൻസ് പിന്നെ ഒരു വെറും റെസിസ്റ്റൻസ് ആയ ലോഡ് ഇവയൊക്കെ തുടക്കത്തിലും അവസാനവും എന്ത് വരുന്നുവോ അതിന്റെ ഒരു ചിത്രീകരണം മാത്രമാണ് ഇത് യഥാർത്ഥത്തിൽ ഒരു റെസിസ്റ്റൻസുമായി സീരീസിൽ ഉള്ള വോൾടേജ് സോഴ്സ് മാത്രമാവില്ല ഇത് ഒരു തെവെനിൻ ഇക്വിവാലെന്റ് ആണ് അതുപോലെ ഇത് പിന്നെ ലഭിക്കാവുന്ന ഒരു ഇൻപുട്ട് റെസിസ്റ്റൻസ് കാണിക്കുന്നു അതിനാൽ ഇപ്പോൾ ഇത് വിശകലനം ചെയ്യാം നേരത്തെ നമ്മൾ ചില വിശകലനം നടത്തി ഇത് vo vi എന്ന് പറഞ്ഞു ആ സമയത്ത് നമ്മൾ ലോഡും മറ്റും പരിഗണിച്ചില്ല ഇവിടെ ഒന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടെ ഈ കറന്റ് പാരാസൈറ്റിക് കപ്പാസിറ്ററിലേക്ക് ഒഴുകുമെന്നും കറന്റ് പൂജ്യത്തിന് തുല്യമാകുമ്പോൾ സ്ഥിരമായ അവസ്ഥയിലെത്തുമെന്നും നമ്മൾ പറഞ്ഞു അതിനാൽ സോഴ്സ് വോൾട്ടേജ് ഗേറ്റ് വോൾട്ടേജിന് തുല്യമാകണം ഇപ്പോൾ ഈ സർക്യൂട്ട് ശരിയായി വിശകലനം ചെയ്തതിനുശേഷം നമുക്ക് നോക്കാം ഇത് വളരെ എളുപ്പമാണ് വളരെ ലളിതമായ സർക്യൂട്ട് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ വ്യത്യസ്ത തരം സർക്യൂട്ടുകളിലേക്ക് പോകുമ്പോൾ സാധാരണ സോഴ്സ് ആംപ്ലിഫയറിൽ സോഴ്സ് ഗ്രൌണ്ട് ആണ് എന്നതാണ് അതിനാൽ ഗേറ്റ് വോൾട്ടേജ് തന്നെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജാണ് ഇത് തീർച്ചയായും എല്ലാ സർക്യൂട്ടുകളിലും ശരിയല്ല ഈ സാഹചര്യത്തിൽ സോഴ്സ് ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചിട്ടില്ല അതിനാൽ ഗേറ്റ് വോൾട്ടേജ് നോക്കി അത് ഗേറ്റ് സോഴ്സ് വോൾട്ടേജാണെന്ന് കരുതരുത് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് കണക്കാക്കാൻ ഇതും ഇതും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ എടുക്കണം ഇപ്പോൾ ഇത് സാധാരണയായി സംഭവിക്കുന്ന തെറ്റാണ് അതിനാലാണ് ഞാൻ ഇത് എടുത്തു കാണിക്കുന്നത് നിരവധി തവണ സോഴ്സ് ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചിട്ടില്ലാത്ത ഇതുപോലത്തെ സർക്യൂട്ടിൽ വിദ്യാർത്ഥികൾ ഗേറ്റ് വോൾട്ടേജ് കണക്കുകൂട്ടുകയും ഗേറ്റ് വോൾട്ടേജ് g m ഉപയോഗിച്ച് ഗുണിക്കുകയും ചെയ്യുന്നു ദയവായി അതിനെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കുക ഇപ്പോൾ ഇത് ശരിക്കും ഒരു നോഡ് സർക്യൂട്ട് ആണ് ഒന്നാമതായി ഗേറ്റിലേക്ക് ഒരു കറന്റും ഒഴുകുന്നില്ല അതിനാൽ ഗേറ്റിലെ വോൾട്ടേജ് vi ആണ് തീർച്ചയായും രണ്ട് ടെർമിനലുകൾക്കിടയിൽ വോൾട്ടേജ് എല്ലായ്പ്പോഴും നിർവചിക്കപ്പെടുന്നു അതിനാൽ ഞാൻ ചില നോഡിൽ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ വ്യക്തമായും മറ്റ് നോഡ് സർക്യൂട്ടിന്റെ കോമൺ ഗ്രൌണ്ട് ആണ് അതിനാൽ ഇത് vi ആണ് ഇപ്പോൾ സോഴ്സിലെ വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജാണ് അവിടെ നിന്നാണ് ഞങ്ങൾ ഔട്ട്പുട്ട് എടുക്കുന്നത് - vo അതിനാൽ എന്താണ് vgs vgsvi vo ഇവിടെ ഈ ഗ്രൌണ്ട് സോഴ്സ് gm ആണ് അതിനാൽ ഇതെല്ലാം അറിയാം ഈ വൈദ്യുതധാരയെ ആ വൈദ്യുതധാരയുമായി തുല്യമാക്കുക എന്നതാണ് ഏക കാര്യം സർക്യൂട്ടിൽ ശരിക്കും ഒരു നോഡ് മാത്രമേയുള്ളൂ അവിടെ ഞങ്ങൾ കിർചോഫിന്റെ Kirchhoff's കറന്റ് നിയമം എഴുതുന്നു നമ്മൾ gm voRL എഴുതണം ചിലപ്പോൾ ഇത് voGL എന്ന് എഴുതാൻ സൌകര്യപ്രദമാണ് ഇവിടെ GL ലോഡ് കണ്ടക്ടൻസ് ആണ് വളരെ ലളിതമാണ് ഇത് നിങ്ങൾ ഔട്ട്പുട്ട് വോൾട്ടേജിനായി പരിഹരിക്കുന്നു നിങ്ങൾക്ക് ലഭിക്കുന്നത് vogmRL1gmRLvi അല്ലെങ്കിൽ കണ്ടക്ടൻസ്ന്റെ കാര്യത്തിൽ gmgmGLvi ലഭിക്കും ഇപ്പോൾ നമുക്ക് ശരിക്കും എന്താണ് വേണ്ടത് നമുക്ക് ഒരു വോൾട്ടേജ് നിയന്ത്രിത വോൾട്ടേജ് സോഴ്സ് വേണം vovi ഇപ്പോൾ നമുക്ക് വ്യത്യസ്തമായ എന്തെങ്കിലും ലഭിച്ചു ഇത് ഒന്നിന് തുല്യമോ അല്ലെങ്കിൽ കുറഞ്ഞത് ഒന്നിനോടടുത്തോ ആകാം തീർച്ചയായും അതിന് കഴിയും അത് കാണുന്നത് വളരെ എളുപ്പമാണ് gmRL 1 ആണെങ്കിൽ ഇത് ഏകദേശം 1 ന് തുല്യമാണ് അതിനാൽ gmRL 1 അല്ലെങ്കിൽ കണ്ടക്ടൻസ്ന്റെ കാര്യത്തിൽ gm GL ആണെങ്കിൽ ഈ സംഖ്യ ഏകദേശം 1 ന് തുല്യമാണ് അതിനാൽ MOS ട്രാൻസിസ്റ്ററിന്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് എങ്ങനെ തിരഞ്ഞെടുക്കാമെന്നും ഇത് നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് ഒരു നിശ്ചിത ലോഡ് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതായത് ഓപ്പറേറ്റിംഗ് പോയിന്റിലെ gm നെ ലോഡ് റെസിസ്റ്റൻസ് കൊണ്ട് ഗുണിച്ചാൽ ഒന്നിൽ കൂടുതൽ കിട്ടുന്ന വിധത്തിൽ നിങ്ങൾ MOS ട്രാൻസിസ്റ്ററിന്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ ഈ രീതിയിൽ MOS ട്രാൻസിസ്റ്ററിന്റെ gm അതായത് ട്രാൻസ്കണ്ടക്റ്റൻസ് ഓപ്പറേറ്റിംഗ് പോയിന്റിലെ MOS ട്രാൻസിസ്റ്ററിന്റെ ലോഡ് കണ്ടക്റ്റൻസിനേക്കാൾ വളരെ കൂടുതലായിരിക്കണം നിങ്ങൾ ആ അവസ്ഥയെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ vo ഏകദേശം vi ന് തുല്യമാണ് അതിനാൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ സോഴ്സും ലോഡും അതിലേക്ക് ബന്ധിപ്പിക്കുമ്പോൾ അത് ഒരു വോൾട്ടേജ് കണ്ട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് പോലെ ആണ് ഈ സാഹചര്യത്തിൽ നമ്മൾ ചില സോഴ്സ് റെസിസ്റ്റൻസ് Rs ഉള്ള ഒരു സോഴ്സുമായും ലോഡ് റെസിസ്റ്റൻസ് RL ഉള്ള ഒരു ലോഡുമായും ബന്ധിപ്പിച്ചാൽ അത് ഇങ്ങനെയാണ് പെരുമാറുന്നത് തീർച്ചയായും നിങ്ങൾ ഈ അവസ്ഥയെ തൃപ്തിപ്പെടുത്തണം ഇപ്പോൾ വോൾട്ടേജ് നിയന്ത്രിത വോൾട്ടേജ് സോഴ്സ്ന്റെ മറ്റ് രസകരമായ സവിശേഷതകൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ് അത് തികച്ചും അനന്തവും ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് അത് പൂജ്യമായിരിക്കണം നമുക്ക് അവയും കണക്കുകൂട്ടാം ഗേറ്റിനും ഗ്രൌണ്ടിനും ഇടയിൽ ഇൻപുട്ട് പ്രയോഗിക്കുന്ന ടെർമിനലുകൾക്കിടയിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് വിലയിരുത്തപ്പെടുന്നു ഈ രണ്ട് ടെർമിനലുകൾക്കിടയിൽ നിങ്ങൾ ഇൻപുട്ട് സോഴ്സ് ബന്ധിപ്പിക്കുന്ന ഇടമാണ് എന്നത് ഓർമ്മിക്കുക നിങ്ങൾ RL കണക്റ്റ് ചെയ്യുന്നിടത്തെല്ലാം സോഴ്സ് ടെർമിനലിനും ഗ്രൌണ്ടിനും ഇടയിൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കണക്കാക്കുന്നു ഇൻപുട്ട് റെസിസ്റ്റൻസ് വിലയിരുത്തുമ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ലോഡ് കൃത്യമായിരിക്കണം അതുപോലെ തന്നെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വിലയിരുത്തുമ്പോൾ സോഴ്സ് റെസിസ്റ്റൻസ് കൃത്യമായിരിക്കണം അതിനാൽ ഇവ കണക്കുകൂട്ടി നമുക്ക് എന്താണ് ലഭിക്കുക എന്ന് നോക്കാം ഇൻപുട്ട് റെസിസ്റ്റൻസ് ശരിക്കും കുറവാണ് ഞാൻ എന്തായാലും ഇത് കാണിക്കാൻ പോകുന്നു ഡ്രെയിൻ ഗ്രൌണ്ട് ചെയ്തിരിക്കുന്നു നിങ്ങൾ ഇൻപുട്ട് സോഴ്സ് എവിടെയാണോ ബന്ധിപ്പിക്കുന്നത് അവിടെ ആയിരിക്കും ഗേറ്റ് ലോഡും അവിടെ ബന്ധിപ്പിച്ചിരിക്കുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഈ പോയിന്റും ഗ്രൌണ്ടും തമ്മിലുള്ള റെസിസ്റ്റൻസ് കണക്കാക്കുക എന്നതാണ് ഇപ്പോൾ തീർച്ചയായും സാധാരണയായി നിങ്ങൾ ചെയ്യുന്നത് ഒരു ടെസ്റ്റ് വോൾട്ടേജ് പ്രയോഗിക്കുക കറന്റ് കണ്ടെത്തുക തുടങ്ങിയവയാണ് എന്നാൽ ഇവിടെ പോകുന്ന കറന്റ് പൂജ്യമാണെന്ന് വളരെ വ്യക്തമാണ് അതിനാൽ ഈ രണ്ട് ടെർമിനലുകൾക്കിടയിൽ നിങ്ങൾ പ്രയോഗിക്കുന്ന ടെസ്റ്റ് വോൾട്ടേജ് എന്തുതന്നെയായാലും കറന്റ് പൂജ്യമായിരിക്കും അതിനാൽ VTEST ബൈ ITEST ആണ് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഞാൻ അതിലേക്ക് ഒരു VTEST പ്രയോഗിക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടെ പ്രയോഗിക്കാൻ കഴിയുമായിരുന്നു എനിക്ക് അത് അവിടെ പ്രയോഗിക്കാം VTESTITESTഎന്നത് അനന്തമാണ് അതിനാൽ ഈ ടോപ്പോളജി MOS ട്രാൻസിസ്റ്ററിന് തുല്യമായ സ്മാൾ സിഗ്നൽ ഉപയോഗിച്ചാണ് നമ്മൾ ഉണ്ടാക്കിയതെങ്കിലും ഇൻപുട്ട് റെസിസ്റ്റൻസിന്റെ അനുയോജ്യമായ മൂല്യം നിങ്ങൾക്ക് നൽകുന്നു അനുയോജ്യമായ മൂല്യം അനന്തമായിരിക്കണം അത് ശരിക്കും അനന്തമാണ് അത് ഒരു കറന്റും ഉണ്ടാക്കുന്നില്ല ഇത് വളരെ മികച്ചതാണ് എന്തുകൊണ്ടാണ് കാരണം ഈ വോൾട്ടേജ് സ്രോതസ്സുകൾ എത്ര മോശമാണെങ്കിലും ഇൻപുട്ടിനെ നയിക്കുന്നു Rs വളരെ വലുതായിരിക്കാം പക്ഷേ ഇപ്പോഴും ഈ vi എല്ലാം സർക്യൂട്ടിന്റെ ഗേറ്റ് ടെർമിനലായ ഇൻപുട്ട് ടെർമിനലിൽ ദൃശ്യമാകുന്നു ഇപ്പോൾ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കണക്കാക്കാൻ നിങ്ങൾ ഇൻപുട്ട് സോഴ്സ് പൂജ്യത്തിന് തുല്യമാക്കുന്നു നമുക്ക് vi 0 ഉണ്ട് നിങ്ങൾക്ക് അവിടെ ഒരു Rs ഉണ്ട് ഈ രണ്ട് ടെർമിനലുകൾക്കിടയിലാണ് നിങ്ങൾ ലോഡ് റെസിസ്റ്റൻസ് ബന്ധിപ്പിക്കുന്നത് അതിനാൽ ഈ രണ്ട് ടെർമിനലുകൾ തമ്മിലുള്ള റെസിസ്റ്റൻസ് നിങ്ങൾ കണ്ടെത്തണം ഡ്രെയിൻ തീർച്ചയായും ഗ്രൌണ്ട് ചെയ്തിരിക്കുന്നു അതിനാൽ മുമ്പത്തെ മുന്നറിയിപ്പ് ഞാൻ ആവർത്തിക്കുന്നു സോഴ്സ് വോൾട്ടേജുകൾ എന്താണെന്നും നിങ്ങൾ നടത്തുന്ന ഈ കണക്കുകൂട്ടലുകളെക്കുറിച്ചും ശ്രദ്ധിക്കുക അതിനാൽ ഞാൻ ഇവിടെ VTEST പ്രയോഗിക്കും കൂടാതെ ഒഴുകുന്ന കറന്റ് ITEST ഉം VTESTITEST ഉം എനിക്ക് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് നൽകും ഒന്നാമതായി ഗേറ്റ് വോൾട്ടേജ് എന്താണ് ഗേറ്റ് കറന്റ് ഒഴുകുന്നില്ല അതിനാൽ Rs ലൂടെ കറന്റ് ഇല്ല തൽഫലമായി ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ഗ്രൌണ്ടുമായി ബന്ധപ്പെട്ട് പൂജ്യo വോൾട്ടിലാണ് ഇപ്പോൾ സോഴ്സിലെ വോൾട്ടേജ് എന്താണ് അത് VTEST ന് തുല്യമാണ് കാരണം VTEST സോഴ്സിനും ഗ്രൌണ്ടിനും ഇടയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ MOS ട്രാൻസിസ്റ്ററിന്റെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് vgs എന്താണ് vgs VTEST 0 VTEST ഇവിടെ ഈ കറന്റ് സോഴ്സ് MOS ട്രാൻസിസ്റ്ററിനുള്ളിൽ gmvgs ആണ് ഇത് gmVTEST എന്നതിന് തുല്യമാണ് gmVTEST ന്റെ കറന്റ് മുകളിലേക്ക് പ്രവഹിക്കുന്നു എന്നാണ് ഇതിനർത്ഥം gmVTEST താഴേക്ക് ഒഴുകുന്നു gmVTEST മുകളിലേക്ക് പ്രവഹിക്കുന്നു അത് ITEST ന് തുല്യമാണ് ITEST കേവലം VTESTITEST ആണ് അതിനാൽ Rout VTESTITEST VTESTgmVTEST 1gm അതിനാൽ ഈ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് 1gm ആണ് ഇത് പൂജ്യമല്ല ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് തുല്യ പൂജ്യമായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് 1gm ആണ് ഇപ്പോൾ ഒരു വോൾട്ടേജ് നിയന്ത്രിത വോൾട്ടേജ് സോഴ്സിൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ചെറുതായിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു ലോഡ് റെസിസ്റ്റൻസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചെറുതോ വലുതോ ആയതിന് ഇപ്പോൾ എന്താണ് അതിനാൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ലോഡ് റെസിസ്റ്റൻസിനേക്കാൾ വളരെ ചെറുതായിരിക്കണം ഇതിന്റെ അർത്ഥമെന്താണ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസായ 1gmഎന്നത് RL നേക്കാൾ വളരെ ചെറുതായിരിക്കണം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ gmRL 1 അല്ലെങ്കിൽ gm GL സർക്യൂട്ടിന്റെ ഗെയിൻ കൈവരിക്കാൻ ആവശ്യമായ അതേ അവസ്ഥയാണിതെന്ന് ഓർക്കുക vovi ഒന്നിനോട് അടുത്താണെന്നുള്ളത് അതിനാൽ നിങ്ങൾ ഇത് സ്വപ്രേരിതമായി തൃപ്തിപ്പെടുത്തുo അതിനാൽ ഈ സർക്യൂട്ട് ഒരു നല്ല വോൾട്ടേജ് നിയന്ത്രിത വോൾട്ടേജ് സോഴ്സ് പോലെ പ്രവർത്തിക്കുന്നു ഇതിന് ഒരു ഗേയിൻ അത് gmRL1gmRL 1 ആണെങ്കിൽ gmRL 1 Rin തീർച്ചയായും ഇൻഫിനിറ്റി ആണ് Rout 1gm ഈ അവസ്ഥ നിങ്ങൾ നിറവേറ്റുകയാണെങ്കിൽ അത് RL നേക്കാൾ വളരെ ചെറുതായിരിക്കും അതിനാൽ നമുക്ക് ലഭിച്ചത് ഗേയിൻ ഒന്നിന്റെ പ്രായോഗിക വോൾട്ടേജ് നിയന്ത്രിത വോൾട്ടേജ് സോഴ്സ് ആണ് ഇപ്പോൾ ഈ പ്രത്യേക സർക്യൂട്ടിൽ ഇൻപുട്ട് ഉണ്ട് അത് ഗേറ്റിൽ പ്രയോഗിക്കുന്നു ഗേറ്റിനും ഗ്രൌണ്ടിനും ഇടയിൽ ഇത് പ്രയോഗിക്കുന്നു MOS ട്രാൻസിസ്റ്റർ ഉണ്ട് ഡ്രെയിൻ ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു കൂടാതെ ലോഡ് സോഴ്സ് ടെർമിനലിനും ഗ്രൌണ്ടിനും ഇടയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾ നിരീക്ഷിക്കുകയാണെങ്കിൽ ഇൻപുട്ട് ഗേറ്റിനും ഗ്രൌണ്ടിനും ഇടയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു മാത്രമല്ല ഇതിനെക്കുറിച്ച് ഗേറ്റും ഡ്രെയിനും ആയി ചിന്തിക്കാം അതുപോലെ ഔട്ട്പുട്ട് സോഴ്സിനും ഗ്രൌണ്ടിനും ഇടയിലോ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സോഴ്സിനും ഡ്രെയിനിനുമിടയിലാണ് ഒരു കോമൺ സോഴ്സ് ആംപ്ലിഫയറിൽ ഗേറ്റിനും സോഴ്സിനും ഇടയിൽ ഇൻപുട്ട് പ്രയോഗിക്കുകയും ഡ്രെയിനും സോഴ്സും ഇടയിൽ ഔട്ട്പുട്ട് എടുക്കുകയും ചെയ്തു ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും സോഴ്സ് കോമൺ ആണ് അതിനാലാണ് ഇതിനെ കോമൺ സോഴ്സ് ആംപ്ലിഫയർ എന്ന് വിളിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നിവയിൽ ഡ്രെയിൻ കോമൺ ആണ് അതിനാൽ ഈ പ്രത്യേക ടോപ്പോളജി ഗെയിൻ ഒന്ന് ഉള്ള വോൾട്ടേജ് നിയന്ത്രിത വോൾട്ടേജ് സോഴ്സ് കോമൺ ഡ്രെയിൻ ആംപ്ലിഫയർ എന്നും അറിയപ്പെടുന്നു ഇപ്പോൾ ഇതിന് മറ്റൊരു പേരുണ്ട് സോഴ്സ് ടെർമിനലിലെ വോൾട്ടേജിന് തുല്യമായ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജിന് ഏകദേശം തുല്യമാണെന്ന് നമുക്കറിയാം ഇത് ഗേറ്റ് ടെർമിനലിലെ വോൾട്ടേജാണ് അടിസ്ഥാനപരമായി സോഴ്സ് വോൾട്ടേജ് ഗേറ്റ് വോൾട്ടേജിനെ പിന്തുടരുന്നു അതിനാൽ ഇക്കാരണത്താൽ ഇതിനെ സോഴ്സ് ഫോളോവർ എന്നും വിളിക്കുന്നു ഇതിനർത്ഥം സോഴ്സ് വോൾട്ടേജ് ഗേറ്റ് വോൾട്ടേജിനെ പിന്തുടരുന്നു എന്നാണ് സോഴ്സ് ഫോളോവർ എന്ന പദങ്ങൾ നിങ്ങൾ കൂടുതൽ കാണും അതിനാൽ ഇത് സാധാരണ ഡ്രെയിൻ സോഴ്സ് ആയോ അല്ലെങ്കിൽ വോൾട്ടേജ് നിയന്ത്രിത വോൾട്ടേജ് സോഴ്സ് ആയോ സൂചിപ്പിക്കുന്നു അതിനാൽ ഇത് ഗെയിൻ ഒന്ന് ഉള്ള വോൾട്ടേജ് നിയന്ത്രിത വോൾട്ടേജ് സോഴ്സ് അല്ലെങ്കിൽ കോമൺ ഡ്രെയിൻ ആംപ്ലിഫയർ അല്ലെങ്കിൽ സോഴ്സ് ഫോളോവർ എന്നിവയുടെ സ്മാൾ സിഗ്നൽ ചിത്രവും വിശകലനവും പൂർത്തിയാക്കുന്നു ഇപ്പോൾ അടുത്തതായി നമ്മൾ ചെയ്യുന്നത് ഇതിനായി അനുയോജ്യമായ ഒരു ബയസ് ക്രമീകരണം കണ്ടെത്തി സർക്യൂട്ട് പൂർത്തിയാക്കുക എന്നതാണ് കാരണം ഇതുവരെ നമ്മുടെ പക്കലുള്ളത് ശരിയാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഇൻക്രെമെന്റൽ ചിത്രം മാത്രമാണ് MOS ട്രാൻസിസ്റ്ററിന്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് സജ്ജീകരിക്കേണ്ടതുണ്ട് ആ ഓപ്പറേറ്റിംഗ് പോയിന്റിൽ ഇൻക്രെമെന്റൽ ചിത്രം ഇതുപോലെ ആയിരിക്കണം